ഈ പാഠത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളും പ്രതികരണങ്ങളും സംഗ്രഹിക്കും കൂടാതെ ഒരു DC കറന്റ് ഒരു കപ്പാസിറ്ററിലൂടെ കടന്നുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു ഇൻഡക്ടറിൽ ഒരു DC വോൾട്ടേജ് ഉണ്ടാകില്ല എന്നിങ്ങനെയുള്ള പൊതുവായ ലിമിറ്റ് സ്റ്റേറ്റ്മെന്റുകളും നോക്കാം അതിനാൽ ആദ്യം ഞങ്ങൾ ഇത് ഒരു ഉദാഹരണമായി എടുക്കും എന്നാൽ ഞാൻ പറയുന്ന പ്രസ്താവനകൾ ഓരോ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിനും ശരിയായിരിക്കും സിംഗിൾ കപ്പാസിറ്റർ ഉള്ള ഏത് സർക്യൂട്ടും എത്ര ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകളും മറ്റ് ലീനിയർ ഘടകങ്ങളും ഈ രൂപത്തിലേക്ക് ചുരുക്കാം ഈ V s R c ഇത് യഥാർത്ഥ സർക്യൂട്ട് ആകാം അല്ലെങ്കിൽ ഈ V s ഉം R ഉം കണക്റ്റുചെയ്തിരിക്കുന്നതിന് തുല്യമായ തെവെനിൻ ആകാം ഒരൊറ്റ കപ്പാസിറ്റർ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഉണ്ടായിരിക്കും ഇത് തുല്യമായ സർക്യൂട്ട് ആയിരിക്കും ഇപ്പോൾ സാധ്യമായ വ്യത്യസ്ത വേരിയബിളുകൾ നമുക്ക് തിരിച്ചറിയാം ഞാൻ കപ്പാസിറ്റർ വോൾട്ടേജ് Vc കപ്പാസിറ്റർ കറന്റും Ic റെസിസ്റ്റർ വോൾട്ടേജും അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ സർക്യൂട്ടിനുള്ള ഡിഫറൻഷ്യൽ സമവാക്യം ഈ വേരിയബിളുകളിൽ ഏതെങ്കിലുമുപയോഗിച്ച് എഴുതാമെന്ന് ഇതിനകം കണ്ടു നിങ്ങൾ ഇത് V c യുടെ അടിസ്ഥാനത്തിൽ എഴുതിയാൽ ഇതാണ് ഡിഫറൻഷ്യൽ സമവാക്യം I c യുടെ അടിസ്ഥാനത്തിൽ ഇതാണ് ഡിഫറൻഷ്യൽ സമവാക്യം കൂടാതെ അവസാനമായി VR ന്റെ കാര്യത്തിൽ ഇതാണ് ഡിഫറൻഷ്യൽ സമവാക്യം ഇവ പൊതുവെ ശരിയാണ് V c വേരിയബിളായി അല്ലെങ്കിൽ I c വേരിയബിളായി അല്ലെങ്കിൽ VR വേരിയബിളായി തിരഞ്ഞെടുത്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ സമവാക്യം മാത്രമാണിത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യം ഇടതുവശം കൃത്യമായി സമാനമാണ് എന്നതാണ് അതിനാൽ സോഴ്സ് ഫ്രീ സർക്യൂട്ടിൽ Vs 0 ആയിരിക്കുമ്പോൾ മൂന്നും നിങ്ങൾക്ക് ഒരേ ഡിഫറൻഷ്യൽ സമവാക്യം നൽകുന്നു വലത് വശങ്ങൾ 0 ആയിരിക്കും സോഴ്സ് ഫ്രീ കെയ്സ് ആയ Vs0 സജ്ജീകരിച്ചാൽ വലതുഭാഗം 0 0 ഉം 0 ഉം ആയിരിക്കും അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഒരേപോലെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വലതുവശങ്ങൾ 0 ആണെങ്കിൽ വേരിയബിളുകൾ മാത്രം വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഈ വേരിയബിളുകളുടെ ഓരോ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളും ഒരേ പ്രതികരണത്തെ പിന്തുടരുന്നു അതിനാൽ സോഴ്സ് ഫ്രീ കേസുമായി പൊരുത്തപ്പെടുന്ന ഇവ ഓരോന്നും സ്വാഭാവിക പ്രതികരണം Vc എക്സ്പോണൻഷ്യൽ tRC ആയിരിക്കും Vc കൂടാതെ Ic എക്സ്പോണൻഷ്യൽ tRC ആയിരിക്കും I c ഒടുവിൽ നമുക്ക് VR എക്സ്പോണൻഷ്യൽ tRC ആയിരിക്കും VR അതിനാൽ ഒരു ഫസ്റ്റ് ഓർഡർ RC സർക്യൂട്ടിന്റെ അടിസ്ഥാനകാര്യങ്ങൾ പരിചിതമായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ സമവാക്യം പോലും എഴുതേണ്ടതില്ല ഒരു സാധാരണ സർക്യൂട്ട് വിശകലനം ചെയ്യാൻ കഴിയുന്ന ഇനിഷ്യൽ കണ്ടിഷൻ തിരിച്ചറിഞ്ഞ് സ്വാഭാവിക പ്രതികരണം എഴുതാൻ കഴിയും ഇപ്പോൾ ഇത് ശരിയായി മനസ്സിലാക്കാൻ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളും ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇതിൽ മതിയായ അനുഭവം ലഭിച്ച ശേഷം ഏതെങ്കിലും ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ ഉചിതമായ ഇനിഷ്യൽ കണ്ടിഷൻ തിരിച്ചറിയുന്നതിലൂടെ പരിഹരിക്കാൻ കഴിയും സർക്യൂട്ടിലെ ഏത് വേരിയബിളിനും ഇത് ശരിയാണ് കാരണം എല്ലാ വേരിയബിളുകളും അവിടെ കാണാൻ കഴിയുന്ന അതേ പാറ്റേൺ പിന്തുടരും ഇപ്പോൾ Vs ഒരു കോൺസ്റ്റന്റ് ആണെന്ന് അനുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ നോക്കിയത് അങ്ങനെയാണ് Vs ഒരു കോൺസ്റ്റന്റാണെങ്കിൽ ഈ രണ്ടും വീണ്ടും 0 ആയിരിക്കും കാരണം Vs ന്റെ ടൈം ഡെറിവേറ്റീവ് 0 ആണ് അതിനുള്ള പരിഹാരവും ഞങ്ങൾക്കറിയാം ഇത് Ic യുടെ അതേ പരിഹാരമാണ് നിങ്ങൾ ഈ ഡെറിവേറ്റീവ് പദം നീക്കം ചെയ്താൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ശേഷിക്കും ഒരു അൽജിബ്രൈക് സമവാക്യം കോൺസ്റ്റന്റ് ഇൻപുട്ടുകൾക്കുള്ള സ്റ്റേഡി സ്റ്റേറ്റ് സൊല്യൂഷനാണ് ഈ വേരിയബിളുകളിലേതെങ്കിലും സ്റ്റേഡി സ്റ്റേറ്റുകളും ഒരു കോൺസ്റ്റന്റാണ് ഡെറിവേറ്റീവുകൾ 0 ആണെങ്കിൽ മാത്രമേ ഇവ സ്ഥിരമായിരിക്കൂ അതിനാൽ കോൺസ്റ്റന്റ് ഇൻപുട്ടുകൾക്ക് ഡെറിവേറ്റീവുകൾ 0 ആയിരിക്കുമ്പോൾ സ്റ്റേഡി സ്റ്റേറ്റ് സമവാക്യം അടിസ്ഥാനപരമായി ആണ് കൂടാതെ പ്രതികരണങ്ങൾ V c ന് മാത്രം സമാനമാകുമ്പോൾ അത് വ്യത്യസ്തമാണ് ഇപ്പോൾ വീണ്ടും ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിൽ ഈ ആദ്യ ഓർഡറിനേക്കാൾ സങ്കീർണ്ണമായേക്കാവുന്ന ഒരൊറ്റ കപ്പാസിറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് എത്ര റെസിസ്റ്ററുകൾ നിയന്ത്രിത ഉറവിടങ്ങൾ വേണമെങ്കിലും സ്വതന്ത്ര ഉറവിടങ്ങളും മറ്റും ഉണ്ടായിരിക്കും അതിനാൽ നിങ്ങൾ ഏതെങ്കിലും വേരിയബിൾ തിരഞ്ഞെടുക്കുക അത് പൊതുവെ ഇതുപോലെയുള്ള ചില സമവാക്യങ്ങൾ പിന്തുടരും ഇതിനുള്ള പരിഹാരം എന്താണ് V s കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ എഴുതിയത് Vc എന്നത് V s Vc V s × എക്സ്പോണൻഷ്യൽ t RCI ആണ് ഇതിനെ കുറിച്ച് അൽപ്പം വിശദീകരിക്കും ഡിഫറൻഷ്യൽ സമവാക്യം ഞാൻ എഴുതട്ടെ ഇതിനുള്ള പരിഹാരം ഫോഴ്സ് പ്രതികരണം സ്വാഭാവിക പ്രതികരണത്തിന്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്നു ഇപ്പോൾ ഈ Vs ഇതിന് പ്രത്യേകമാണെന്ന് തോന്നുന്നു എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചാൽ ഇവിടെ ദൃശ്യമാകുന്നതെല്ലാം മറ്റൊന്നുമല്ല സ്റ്റെഡി സ്റ്റേറ്റ് പരിഹാരമാണെന്ന് മനസ്സിലാക്കും അതിനാൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ഇൻപുട്ട് Vs ഉണ്ടെങ്കിൽ സ്റ്റെഡി സ്റ്റേറ്റ് നൽകുന്നത് d V c 0 ആണ് അതായത് V c സമം Vs എന്ന സമവാക്യത്തിന്റെ ഈ ഭാഗം മാത്രമേ നമ്മൾ എടുക്കൂ സ്റ്റെഡി സ്റ്റേറ്റ്ൽ എത്തിയതിന് ശേഷം ഇത് സംഭവിക്കുന്നു ഇപ്പോൾ പരിഗണിക്കുന്ന എല്ലാ സർക്യൂട്ടും ഒരു സ്റ്റേബിൾ സർക്യൂട്ടായിരിക്കുമെന്നും ഈ സ്ഥിരത കുറഞ്ഞ അവസ്ഥയിലെത്തുമെന്നും സ്വാഭാവിക പ്രതികരണം ഒടുവിൽ ഇല്ലാതാകുമെന്നും ഞാൻ പറഞ്ഞു അതിനാൽ ഈ സമവാക്യം കൂടുതൽ പൊതുവായ രീതിയിൽ Vc∞ Vc V c∞ × എക്സ്പോണൻഷ്യൽ t R C എന്ന് എഴുതാം അതിനാൽ Vc∞ എന്നത് V c യുടെ സ്റ്റെഡി സ്റ്റേറ്റ് മൂല്യമാണ് അത് അസിമട്രിക്കലി ഈ മൂല്യത്തിൽ എത്തുമെന്ന് നമുക്കറിയാം V c ആണ് Vc യിലെ പ്രാരംഭ അവസ്ഥ Vs ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഈ പരിഹാരം സാധുവാണ് ടൈമിന്റെ ചില അനിയന്ത്രിതമായ ഫംഗ്ഷൻ Vs ഉണ്ടെങ്കിൽ ആ ടൈമിന്റെ ഫംഗ്ഷൻ ഇവിടെ പകരം വയ്ക്കാൻ കഴിയില്ല അതിനാൽ Vs ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളു അതിനാൽ ഇപ്പോൾ ഇത് ഏതെങ്കിലും ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിനുള്ള ഒരു പൊതു രൂപമാണ് ഞങ്ങൾ വീണ്ടും സിംഗിൾ R C എന്നിവയിലേക്കുള്ള RC സർക്യൂട്ടിലേക്ക് നോക്കുന്നു എന്നാൽ നിങ്ങൾക്ക് സിംഗിൾ കപ്പാസിറ്ററോ സിംഗിൾ ഇൻഡക്ടറോ ഉള്ള ഒരു സർക്യൂട്ട് ഉള്ളിടത്തോളം കാലം സർക്യൂട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നത്ര സങ്കീർണ്ണമായേക്കാം നിങ്ങൾക്ക് എത്ര ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളും റെസിസ്റ്ററുകളും നിയന്ത്രിത ഉറവിടങ്ങളും പോലുള്ള ലീനിയർ ഘടകങ്ങളും ഉണ്ടായിരിക്കാം കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിലെ സിംഗിൾ റെസിസ്റ്ററുമായി സീരീസിലെ ഒരു വോൾട്ടേജ് സ്രോതസ്സിലേക്ക് അതെല്ലാം കുറയ്ക്കാമെന്നും ഒരു ഇൻഡക്റ്റർ ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യാമെന്നും തെവെനിൻ സിദ്ധാന്തത്തിൽ നിന്ന് നമുക്കറിയാം അതിനാൽ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ആണ് ഫലം അത്തരം സർക്യൂട്ടുകളിലെ ഏതെങ്കിലും വേരിയബിളിനുള്ള പരിഹാരം ഈ രൂപത്തിലായിരിക്കും കോൺസ്റ്റന്റ് ഇൻപുട്ട് ഭാഗം പ്രധാനമാണ് ടൈമിന്റെ ഒരു ഫംഗ്ഷൻ എന്ന നിലയിൽ ഇത് കുറച്ച് വോൾട്ടേജ് V x ആണെന്ന് നമുക്ക് പറയാം ഇത് സ്റ്റെഡി സ്റ്റേറ്റ് മൂല്യവും സമയത്തിനനുസരിച്ച് മാറുന്ന പ്രാരംഭവും സ്റ്റെഡി സ്റ്റേറ്റ് മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ആയിരിക്കും അതിനാൽ ഇതിനകം സൂചിപ്പിച്ചതുപോലെ ഇതാണ് സ്റ്റെഡി സ്റ്റേറ്റ് മൂല്യം ഇതാണ് പ്രാരംഭവും സ്റ്റെഡി സ്റ്റേറ്റ് അവസ്ഥ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ടൈം കോൺസ്റ്റന്റ് ഇത് ഏത് വൈദ്യുതധാരയ്ക്കും ശരിയാണ് പൊതുവെ ഇത് ഈ രൂപത്തിലായിരിക്കും ഇത് ഒരേ ടൈം കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും ഇതാണ് ടൈം കോൺസ്റ്റന്റ് ഇതാണ് സ്റ്റെഡി സ്റ്റേറ്റ് മൂല്യം ഈ ഭാഗം പ്രാരംഭവും സ്റ്റെഡി സ്റ്റേറ്റ് മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാതെ തന്നെ നിങ്ങൾക്ക് പ്രതികരണം എഴുതാൻ കഴിയണം ഇപ്പോൾ ഡിഫറൻഷ്യൽ സമവാക്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതെല്ലാം നിങ്ങൾ മറക്കണം എന്നല്ല ഇതിനർത്ഥം അതിനാൽ തുടക്കത്തിൽ നിങ്ങൾ ഡിഫറൻഷ്യൽ സമവാക്യം എഴുതുകയും എല്ലാം സ്ഥിരതയുള്ളതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് കറന്റ്കളുടെയോ വോൾട്ടേജുകളുടെയോ സ്റ്റെഡി സ്റ്റേറ്റ് മൂല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും ഒരു നിമിഷത്തിനുള്ളിൽ അത് എങ്ങനെ ചെയ്യാമെന്നും കറന്റ്കളുടെയോ വോൾട്ടേജുകളുടെയോ ഇനിഷ്യൽ മൂല്യങ്ങളും ഞാൻ വിശദീകരിക്കും നിങ്ങൾ ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ തിരിച്ചറിയാനുള്ള ഒരേയൊരു കാര്യം ടൈം കോൺസ്റ്റന്റ് ആണ് അതും തിരിച്ചറിയാൻ കഴിയും കാരണം നിങ്ങൾക്ക് സിംഗിൾ കപ്പാസിറ്റർ അല്ലെങ്കിൽ സിംഗിൾ ഇൻഡക്ടറും സോഴ്സ് ഫ്രീ സർക്യൂട്ടിലെ കപ്പാസിറ്ററിലോ ഇൻഡക്ടറിലോ ഉടനീളം ദൃശ്യമാകുന്ന ഫലപ്രദമായ റെസിസ്റ്റൻസ് ഉണ്ട് അതാണ് ഇക്വിവാലെന്റ് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസിന്റെയും റെസിസ്റ്റൻസ്ന്റെയും ഗുണനഫലം ടൈം കോൺസ്റ്റന്റ് ആണ് ഇപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന എല്ലാ കേസുകൾക്കും ഇത് കുറച്ച് കഴിഞ്ഞ് പരിഷ്കരിക്കപ്പെടും നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനാൽ ഇനിഷ്യൽ അവസ്ഥ അർത്ഥമാക്കുന്നത് ഇൻപുട്ട് പ്രയോഗിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സ്റ്റെപ്പ് മറ്റേതെങ്കിലും മൂല്യത്തിലേക്ക് മാറുന്നതിന് മുമ്പോ കപ്പാസിറ്ററിന് കുറച്ച് വോൾട്ടേജ് ഉണ്ട് സാധാരണയായി കപ്പാസിറ്റർ വോൾട്ടേജ് തൽക്ഷണം മാറുന്നില്ലെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു കപ്പാസിറ്ററിലെ കറന്റ് പരിമിതമാണെങ്കിൽ ഇത് ശരിയാണ് ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒരു സർക്യൂട്ടിലെ ഏത് വേരിയബിളിലും പ്രാരംഭ അവസ്ഥ കണക്കാക്കാൻ കഴിയും അതിനാൽ വീണ്ടും ഞാൻ ഇതുപോലൊരു സിമ്പിൾ സർക്യൂട്ട് എടുക്കട്ടെ ഇൻപുട്ട് Vs 0 വോൾട്ടിൽ നിന്ന് 5 വോൾട്ടിലേക്കും കപ്പാസിറ്ററിലെ വോൾട്ടേജും സ്റ്റെപ്പിന് തൊട്ടുമുമ്പ് മാറുന്നുവെന്നും ഈ ഘട്ടം 0 ഈ സൂപ്പർസ്ക്രിപ്റ്റിന് തുല്യമാണെന്ന് പറയാം എന്നതിനർത്ഥം അത് സ്റ്റെപ്പിന് തൊട്ടുമുമ്പുള്ളതാണെന്നും അത് 2 വോൾട്ടിന് തുല്യമാണെന്നും അർത്ഥമാക്കുന്നു ഇപ്പോൾ ഒന്നാമതായി കപ്പാസിറ്റർ വോൾട്ടേജിന്റെ മൂല്യം കപ്പാസിറ്റർ വോൾട്ടേജിലെ പ്രാരംഭ അവസ്ഥ കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സൂചിപ്പിക്കുന്ന ഘട്ടത്തിന് തൊട്ടുപിന്നാലെ ഇത് Vc ന് തുല്യമായിരിക്കും കാരണം ഈ സർക്യൂട്ടിൽ നമുക്ക് ഇൻഫിനിറ്റ് കറന്റ് ഉണ്ടാകില്ല കപ്പാസിറ്ററിലൂടെ ഇൻഫിനിറ്റ് കറന്റ് ഉണ്ടെങ്കിൽ ആ ഇൻഫിനിറ്റ് കറന്റ് റെസിസ്റ്ററിലൂടെയും ഒഴുകുന്നു അതായത് റെസിസ്റ്ററിലുടനീളം ഇൻഫിനിറ്റ് വോൾട്ടേജിൽ ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ Vs പരിമിതമാണെന്ന് അനുമാനിക്കും അതിനാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഫിനിറ്റ് കറന്റ് ഉണ്ടാകില്ല അത് സംഭവിക്കാവുന്ന സർക്യൂട്ടുകൾ പിന്നീട് കാണാം എന്നാൽ ഈ സർക്യൂട്ടിൽ അതിന് കഴിയില്ല അതിനാൽ ഇത് Vc ന് തുല്യമായിരിക്കും ഇത് 2 വോൾട്ടിന് തുല്യമാണ് പകരം നിങ്ങൾക്ക് V R ൽ താൽപ്പര്യമുണ്ടെങ്കിൽ V R ലെ പ്രാരംഭ അവസ്ഥ V R എന്നത് ബാധകമല്ല എന്നാൽ Vs Vc അതിനാൽ സ്റ്റെപ്പ് പ്രയോഗിച്ചതിന് ശേഷം Vs 5 വോൾട്ട് ആണ് V c 2 വോൾട്ട് ആണ് കാരണം ഇത് തുടർച്ചയായതാണ് V R 3 വോൾട്ട് ആയിരിക്കും അവസാനമായി Ic നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ Ic റെസിസ്റ്ററിലുള്ള വോൾട്ടേജിനെ R കൊണ്ട് ഹരിച്ചതും വോൾട്ടേജ് പ്രാരംഭ അവസ്ഥയും ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ കറന്റിലെ പ്രാരംഭ അവസ്ഥ 3 വോൾട്ട് R ആണ് R 1 കിലോ ഓം ആണെങ്കിൽ അത് 1 മില്ലി ആമ്പിയർ ആണ് അതിനാൽ സർക്യൂട്ടിൽ നിന്ന് നേരിട്ട് പ്രാരംഭ അവസ്ഥ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും തുടർന്ന് കോൺസ്റ്റന്റ് ഇൻപുട്ടുകളുള്ള അവസാന അവസ്ഥ അല്ലെങ്കിൽ സ്റ്റെഡി സ്റ്റേറ്റ് അവസ്ഥ ഇത് പ്രധാനമാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇൻപുട്ടാണ് ഉള്ളത് എന്നതിൽ നിന്ന് പൊതുവായതും ഇൻഡിപെൻഡന്റ് ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിഹാരങ്ങൾ കോൺസ്റ്റന്റ് ഇൻപുട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് ഇനിപ്പറയുന്നവയെ വിലയിരുത്തുന്നു എന്നതാണ് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ കപ്പാസിറ്ററുകളിലുടനീളമുള്ള വോൾട്ടേജുകളും സ്റ്റെഡി സ്റ്റേറ്റ് അവസ്ഥയിൽ കോൺസ്റ്റന്റ് ആയിരിക്കും അതിനാൽ നമുക്ക് കോൺസ്റ്റന്റ് ഇൻപുട്ടുകൾ ഉണ്ടെന്നതിന്റെ അർത്ഥം കപ്പാസിറ്റർ വോൾട്ടേജ് സ്റ്റെഡി സ്റ്റേറ്റ്ലാണെന്നാണ് അതിനാൽ കപ്പാസിറ്റർ വോൾട്ടേജ് കോൺസ്റ്റന്റ് കപ്പാസിറ്റർ കറന്റ് ആണെങ്കിൽ അത് ലളിതമാക്കുന്നു അതിനാൽ ഇവിടെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ഉണ്ട് അതിനാൽ കപ്പാസിറ്റർ കറന്റ് I c × കപ്പാസിറ്റർ വോൾട്ടേജിന്റെ സമയ ഡെറിവേറ്റീവ് 0 ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ഇൻപുട്ടുകളും എല്ലാ സ്റ്റെഡി സ്റ്റേറ്റ് അവസ്ഥയും ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ കറന്റ് 0 ആയിരിക്കും അതിനർത്ഥം അവയെ ഓപ്പൺ സർക്യൂട്ടുകളായി കണക്കാക്കാമെന്നാണ് അതിനാൽ വീണ്ടും മുമ്പത്തെ അതേ ഉദാഹരണം എടുക്കാം 5 വോൾട്ട് ഇൻപുട്ടും 1 കിലോ ഓം റെസിസ്റ്ററും ചില കപ്പാസിറ്റർ C യും ഉപയോഗിച്ച് ഫൈനൽ മൂല്യം കണക്കാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഫൈനൽ മൂല്യ കണക്കുകൂട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കണ്ടത് കപ്പാസിറ്റർ കറന്റ് 0 ആയിരിക്കും ഫൈനൽ മൂല്യം കണക്കാക്കുമ്പോൾ മാത്രമേ നമുക്ക് കപ്പാസിറ്ററുകൾ ഓപ്പൺ സര്ക്യൂട് ചെയ്യാൻ കഴിയൂ അവസാന സ്റ്റെഡി സ്റ്റേറ്റ് വോൾട്ടേജ് എന്താണെന്ന് ഇപ്പോൾ കാണുന്നത് വളരെ എളുപ്പമാണ് ഇത് 5 വോൾട്ടിന് തുല്യമാണ് കാരണം ഈ റെസിസ്റ്ററിലൂടെ കറന്റ് ഒഴുകുന്നില്ല അതിനാൽ ഇതിനെ Vc എന്ന് വിളിക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റിയിലെ Vc∞ എന്നത് 5 വോൾട്ട് ആണ് ഇത് വളരെ ലളിതമായ സർക്യൂട്ട് ആണ് എന്നാൽ ഏത് സർക്യൂട്ടിലും നിങ്ങൾക്ക് കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ചെയാം അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളും റെസിസ്റ്ററുകളും അല്ലെങ്കിൽ നിയന്ത്രിത ഉറവിടങ്ങളും മാത്രമേ ലഭിക്കൂ ഇത് കപ്പാസിറ്ററുകളില്ലാതെ നേരത്തെയുള്ള സർക്യൂട്ട് വിശകലനം പോലെയാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും V c സ്റ്റേഡി സ്റ്റേറ്റ് മൂല്യം 5 വോൾട്ട് ആണ് നിങ്ങൾക്ക് I c വേണമെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് കാരണം ഇവിടെ I c 0 ആണെന്ന് വ്യക്തമായി കാണാൻ കഴിയും അതിനാൽ Ic∞ 0 ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് V R ൽ താൽപ്പര്യമുണ്ടെങ്കിൽ അത് വേരിയബിളായിരുന്നു കൂടാതെ റെസിസ്റ്ററിലൂടെ കറന്റ് ഇല്ലാത്തതിനാൽ V R ഉം 0 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ സർക്യൂട്ട് പരിശോധിക്കുന്നതിനോ ലളിതമായ സർക്യൂട്ട് കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനോ ഇനിഷ്യൽ ഫൈനൽ മൂല്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു അതായത് ഡിഫറൻഷ്യൽ സമവാക്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകളും റെസിസ്റ്ററുകളും നിയന്ത്രിത സ്രോതസ്സുകളുമുള്ള ചില അൽജിബ്രൈക് സർക്യൂട്ട് പരിഹരിക്കേണ്ടി വന്നേക്കാം അവസാനമായി ടൈം കോൺസ്റ്റന്റ് കണക്കാക്കുന്നത് വളരെ എളുപ്പമാണ് അതിനാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകളും പിന്നെ റെസിസ്റ്ററുകളും നിയന്ത്രിത ഉറവിടങ്ങളും ഉള്ള ഏതെങ്കിലും സർക്യൂട്ട് ഉണ്ടെന്ന് പറയാം ഞങ്ങൾക്ക് രണ്ട് ടെർമിനലുകൾ ലഭ്യമാണ് ഇവക്ക് കുറുകെ കപ്പാസിറ്ററിനെ ബന്ധിപ്പിക്കുന്നു സർക്യൂട്ടിലെ ഒരേയൊരു കപ്പാസിറ്റർ ഇതാണ് അങ്ങനെയെങ്കിൽ ഈ സർക്യൂട്ട് ആദ്യ ക്രമത്തിലായിരിക്കും ബാക്കിയുള്ളവ Rth ന്റെ ശ്രേണിയിൽ Vth എന്ന വോൾട്ടേജ് ഉറവിടത്തെ പ്രതിനിധീകരിക്കാം ഞങ്ങൾക്ക് ഒരു കപ്പാസിറ്റർ C ഉണ്ട് തുടർന്ന് ഇതിന്റെ ടൈം കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകളെ 0 ആയി സജ്ജീകരിക്കുന്നു ഇതിൽ ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് സ്രോതസ്സാണ് ഞങ്ങൾക്ക് C ഉണ്ട് നിങ്ങൾ C യിൽ ഉടനീളമുള്ള പ്രതിരോധം കണ്ടെത്തേണ്ടതുണ്ട് അത് Rth ന് തുല്യമാണ് അതിനാൽ ടൈം കോൺസ്റ്റന്റ് 1 ഓവർ R th × c ആണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ എല്ലാ വേരിയബിളും ഇത്തരത്തിലുള്ള സ്വഭാവം പിന്തുടരും കപ്പാസിറ്റർ വോൾട്ടേജുകൾ മാറില്ല എന്ന് അനുമാനിക്കുന്ന I x ആണ് നിങ്ങൾ ആദ്യം കണ്ടെത്തുന്നത് കപ്പാസിറ്റർ കറന്റ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇത് ശരിയാണ് അത് ഇൻഫിനിറ്റി ആവുന്ന ഉദാഹരണങ്ങൾ നമുക്ക് പിന്നീട് കാണാം കപ്പാസിറ്ററിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്ന ഇൻഫിനിറ്റിയിലെ മൂല്യങ്ങളായ സ്റ്റേഡി സ്റ്റേറ്റ് മൂല്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നു ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഇൻഡക്റ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സ്റ്റേഡി സ്റ്റേറ്റ് കണ്ടെത്താം കാരണം ഇൻഡക്റ്റർ വോൾട്ടേജുകൾ കോൺസ്റ്റന്റ് ഇൻപുട്ടുകളുള്ള സ്റ്റേഡി സ്റ്റേറ്റ്ൽ 0 ആണ് അപ്പോൾ ഈ മൂല്യങ്ങൾ 0 ഉം ∞ ഉം ആണ് കൂടാതെ ടൈം കോൺസ്റ്റന്റ് തീർച്ചയായും സോഴ്സ് ഫ്രീ സർക്യൂട്ടിലെ കപ്പാസിറ്ററിന്റെ ടെർമിനലുകളിൽ തെവെനിൻ പ്രതിരോധം കണ്ടെത്തുന്നത് കണ്ടെത്താനാകും അതിനാൽ മുഴുവൻ പ്രതികരണവും പരിശോധനയിൽ എഴുതാം